ഇപ്പോൾ നമ്മൾ പെരുമാറ്റ കാഴ്ചപ്പാട് എങ്ങനെയാണ് വ്യക്തിത്വം വിശദീകരിക്കാൻ ശ്രമിക്കുന്നതെന്ന് ചർച്ച ചെയ്തതിനാൽ ഇനി നമുക്ക് ആൽബർട്ട് ബന്ദുരയുടെ പ്രസ്താവനയെക്കുറിച്ച് സംസാരിക്കാം ബന്ദുര അദ്ദേഹത്തിന്റെ മോഡലിംഗ് ആശയത്തിൽ വളരെ പ്രസിദ്ധനാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ജ്ഞാനത്തിന്റെ ഭൂരിഭാഗവും നമ്മൾ നിരീക്ഷണത്തിലൂടെയോ മോഡലിംഗിലൂടെയോ നേടിയതാണ് അതിനാൽ നമ്മുടെ ജീവിതത്തിൽ വളർന്നുവരുന്ന ഒരു കുട്ടി എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്നത് എന്തെന്നാൽ നമ്മൾ ഒരു മോഡൽ തിരഞ്ഞെടുക്കുന്നു നമ്മൾ ആ മോഡലിന്റെ ചില തനിപ്പകർപ്പായ സ്വഭാവം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു തുടർന്ന് നമ്മൾ അത് അനുകരിക്കാൻ തുടങ്ങുന്നു അതിനാൽ സംഭവിക്കുന്നത് എന്തെന്നാൽ നമ്മൾ ഇപ്പോൾ അടിസ്ഥാനപരമായി പ്രകടനം നിരീക്ഷിക്കും നിരീക്ഷിച്ച ചില പെരുമാറ്റങ്ങൾ നമ്മൾ നിലനിർത്തുകയും തുടർന്ന് അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു സാധാരണയായി ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ എന്താണ് സംഭവിക്കുന്നത് കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ അല്ലെങ്കിൽ സമൂഹം വളരുന്ന കുട്ടിക്ക് ഒരു പോസിറ്റീവ് ഫീഡ് നൽകുന്ന പരാമർശങ്ങൾ നടത്തുന്നു അതായത് അവൻ അല്ലെങ്കിൽ അവൾ അനുകരിക്കാൻ ശ്രമിക്കുന്നവരെ വിജയകരമായി മാതൃകയാക്കി എന്നത് അതിനാൽ ഇത് ആൽബർട്ട് ബന്ദുര നിർദ്ദേശിച്ച പ്രധാന ആശയമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മോഡലിംഗ് പ്രക്രിയയെ നിയന്ത്രിക്കുന്ന നാല് പ്രക്രിയകളുണ്ട് ശ്രദ്ധ നിലനിർത്തൽ മോട്ടോർ ഉത്പാദനം പ്രചോദനം അതിനാൽ മോഡലിംഗ് ചെയ്യുന്നതിന് മറ്റ് വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ ഇത് ശ്രദ്ധയുടെ ഘടകമാണ് അതിനാൽ നിങ്ങളുടെ പരിതസ്ഥിതിയിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത മാതൃകാ വ്യക്തിയെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു രണ്ടാമതായി നിങ്ങളുടെ മാതൃകാ വ്യക്തി പ്രദർശിപ്പിക്കുന്ന പെരുമാറ്റരീതി നിങ്ങൾ നിരീക്ഷിക്കുകയും നിങ്ങൾ അതിൽ നിന്ന് സൃഷ്ടിക്കുന്ന പ്രതീകാത്മക ചിത്രം നിലനിർത്താൻ അടിസ്ഥാനപരമായി ശ്രമിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇതാണ് നിലനിർത്തൽ ഭാഗം നിങ്ങൾ നിങ്ങളുടെ മോഡലിൽ ശ്രദ്ധിക്കുന്നു നിങ്ങൾ ചില പ്രധാന സവിശേഷതകൾ വളരെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുന്നു പിന്നീട് നിങ്ങൾ അത് നിലനിർത്താൻ ശ്രമിക്കുന്നു മൂന്നാമതായി നിങ്ങൾ നിലനിർത്തിയതെന്തും പ്രതീകാത്മകമായി നിലനിർത്തിയത് മാറ്റിയെടുക്കാൻ നിങ്ങൾ ആരംഭിക്കുമ്പോൾ നിങ്ങൾ അതിനെ ചില വൈജ്ഞാനിക പ്രാതിനിധ്യങ്ങളായി മാറ്റിയെടുക്കാൻ തുടങ്ങും പിന്നീട് അതിനെ ഉചിതമായ പ്രവർത്തനങ്ങളിലേക്കും അതിനാൽ പ്രകടമായ സ്വഭാവം ഇപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾ നിലനിർത്തിയിരുന്ന ചിഹ്നത്തിലേക്ക് അടുക്കുന്നു ഇങ്ങനെയാണ് ശ്രദ്ധ നിലനിർത്താൻ നിങ്ങളെ സഹായിക്കുന്നത് അമിത ഉൽപ്പാദനത്തിലേക്ക് നിലനിർത്തൽ പരിവർത്തനം ചെയ്യുന്നതിൽ നിങ്ങൾ വിജയിക്കുമ്പോൾ അത് മോട്ടോർ പ്രൊഡക്ഷന്റെ ഭാഗമാണ് പിന്നെ തീർച്ചയായും ഉദ്ദേശ്യവുമുണ്ട് ഇവയാണ് മോഡലിംഗിന്റെ മുഴുവൻ പ്രക്രിയയെയും നിയന്ത്രിക്കുന്നത് പഠനത്തിന്റെ രണ്ട് നിർണായക ഘടകങ്ങളെയും ബന്ദുര പരിചയപ്പെടുത്തി പൂർവ്വഗാമി നിർണ്ണയവും അനന്തരഫല നിർണ്ണയവും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പൂർവ്വഗാമി നിർണ്ണയം അവ വ്യക്തിയെ സജീവമാക്കുകയും തന്നിരിക്കുന്ന വ്യക്തിയുടെ പെരുമാറ്റത്തെ നയിക്കുകയും ചെയ്യുന്നു എന്നാൽ അനന്തരഫല നിർണ്ണയം നോക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായി അത് പ്രവർത്തനക്ഷമമാക്കിയതിനുശേഷം പെരുമാറ്റം നിലനിർത്തുന്നു തീർച്ചയായും ഒരാൾക്ക് ലഭിക്കുന്ന ചില ശക്തിപ്പെടുത്തലുകൾ ഉണ്ട് അത് ബാഹ്യമായ സ്വഭാവമുള്ളതായിരിക്കാം പരോക്ഷ ലബ്ധമായ സ്വഭാവമുള്ളതായിരിക്കാം അല്ലെങ്കിൽ സ്വയം നിർമ്മിത ശക്തിപ്പെടുത്തലുകളുടെ ഒരു ഓപ്ഷൻ പോലും ഉണ്ടാകാം ബാഹ്യ ശക്തിപ്പെടുത്തലുകൾ അടിസ്ഥാനപരമായി നേരിട്ടുള്ള അനുഭവങ്ങളിലൂടെയാണ് ലഭിക്കുന്നത് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ കുടുംബത്തിലെ ആളുകൾ നിങ്ങളുടെ സമൂഹത്തിലെ ആളുകൾ അവർ നിങ്ങളെ അഭിനന്ദിക്കുന്നു നിങ്ങളുടെ മാതൃകാ വ്യക്തിയുടെ പെരുമാറ്റം നിങ്ങൾക്ക് പകർത്താൻ കഴിഞ്ഞതിൽ അവർ നിങ്ങളെ അഭിനന്ദിക്കുന്നു അതിനാൽ ഇത് ഒരു പ്രശംസയാണ് ഇത് ബാഹ്യ ശക്തിപ്പെടുത്തലാണ് നിങ്ങൾക്ക് മറ്റ് ചില ഫോർമാറ്റുകളിൽ നിശ്ചിത പ്രതിഫലം ലഭിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്തതിന് ശിക്ഷ ലഭിക്കുന്നു അതിനാൽ പ്രതിഫലവും ശിക്ഷയും ഒരേ പ്രക്രിയയുടെ രണ്ട് വശങ്ങൾ ആണ് അത് പ്രശംസയാവാം അല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് പരിണതഫലങ്ങൾ ആവാം ഇത് ഒരു ഭൌതികമായ സ്വഭാവമുള്ളതായിരിക്കാം നിങ്ങൾക്ക് ഒരു അവാർഡായി പണം നൽകപ്പെടുന്നു എന്നത് പോലെയാവാം അതിനാൽ ഇവയെല്ലാം ബാഹ്യ ശക്തിപ്പെടുത്തലാണ് പരോക്ഷലബ്ധമായ ശക്തിപ്പെടുത്തൽ അടിസ്ഥാനപരമായി നമ്മുടെ പരോക്ഷമായ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഉദാഹരണത്തിന് മറ്റുള്ളവരുടെ പെരുമാറ്റത്തിന്റെ അനന്തരഫലങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെ പഠിക്കുക അതിനാൽ നിങ്ങൾക്ക് ഒരു നേരിട്ടുള്ള അനുഭവം ഉണ്ടായിരിക്കില്ല പകരം മറ്റാരെങ്കിലും ഇത് ചെയ്യാൻ ശ്രമിച്ചെന്നും സമൂഹത്തിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ അനുകൂലമായോ പ്രതികൂലമായോ പ്രതിഫലം ലഭിച്ചതായും നിങ്ങൾക്കറിയാം അതിനാൽ മറ്റൊരാൾ അനുഭവിക്കുന്ന അനന്തരഫലത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കുന്നു ഉദാഹരണത്തിന് ഒരു ക്ലാസ്റൂമിൽ ഒരു പ്രത്യേക രീതിയിൽ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ക്ലാസ്റൂമിൽ സജീവമായ പങ്കാളിത്തം അല്ലെങ്കിൽ അശ്ലീല ഭാഷ ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത ഒന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അതിനാൽ ചെയ്യാവുന്ന ചില വശങ്ങൾ ചെയ്യാനാകാത്ത ചില വശങ്ങൾ നിങ്ങൾ ഇത് സ്വയം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അശ്ലീല ഭാഷ ഉപയോഗിക്കുന്ന മറ്റുള്ളവർ ശിക്ഷിക്കപ്പെടുന്നതായി നിങ്ങൾ കാണുന്നു ക്ലാസ് റൂം സെഷനുകളിൽ സജീവമായി പങ്കെടുത്ത മറ്റുള്ളവർക്ക് പ്രതിഫലം ലഭിക്കുന്നത് നിങ്ങൾ കണ്ടു മറ്റുള്ളവർ സ്വീകരിക്കുന്നതായി നിങ്ങൾ കണ്ടത് ഈ പ്രതിഫലവും ശിക്ഷയുമാണ് അത് നിങ്ങൾക്ക് ഒരു ശക്തിപ്പെടുത്തൽ നൽകുന്നു ഇതാണ് പരോക്ഷലബ്ധമായ ശക്തിപ്പെടുത്തൽ സ്വയം നിർമ്മിത ശക്തിപ്പെടുത്തൽ എന്ന മൂന്നാമത്തെ ഒരു സാഹചര്യവും ഉണ്ടാകാം ഓരോ വ്യക്തിയും തനിക്കുവേണ്ടി ചില മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങൾക്കായി ഒരു മാനദണ്ഡം നിശ്ചയിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ച് പെരുമാറാൻ തുടങ്ങും ഇപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ പെരുമാറ്റം നിലനിർത്താൻ നിങ്ങൾക്ക് ബാഹ്യ ബലപ്പെടുത്തലുകൾ ആവശ്യമില്ല എന്തുകൊണ്ട് നിങ്ങൾ ലക്ഷ്യം നേടാൻ ശ്രമിക്കുന്നതിനാൽ നിങ്ങൾക്ക് ശക്തിപ്പെടുത്തൽ ആവശ്യമില്ല നിങ്ങൾ സ്വയം സജ്ജമാക്കിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റുമായി പൊരുത്തപ്പെടുന്നതിനുള്ള നിങ്ങളുടെ സ്വന്തം പ്രക്രിയ നിങ്ങളുടെ പെരുമാറ്റത്തിന്റെ പരിപാലനത്തിന് പര്യാപ്തമാണ് അദ്ദേഹം നിർദ്ദേശിച്ച മറ്റൊരു ആശയം പരസ്പര നിർണ്ണയമാണ് ബന്ദുര പറഞ്ഞു പരിസ്ഥിതി പെരുമാറ്റത്തിന് കാരണമാകുന്നു ചില തരം പരിസ്ഥിതി സൃഷ്ടിക്കുന്നതിന് പെരുമാറ്റവും ആവശ്യമാണ് വ്യക്തിത്വം അടിസ്ഥാനപരമായി പരിസ്ഥിതി പെരുമാറ്റം വ്യക്തിയുടെ മാനസിക പ്രക്രിയകൾ എന്നിവ തമ്മിലുള്ള ഒരു ഇടപെടലാണ് അതിനാൽ ഇതായിരുന്നു ബന്ദുരയുടെ കാഴ്ചപ്പാട് നമ്മൾ ഇതുവരെ കണ്ടത് നമ്മൾ ഫ്രോയിഡിയൻ കാഴ്ചപ്പാടുകളും നവ ഫ്രോയിഡിയൻ കാഴ്ചപ്പാടുകളും നോക്കി പെരുമാറ്റ കാഴ്ചപ്പാട് നമ്മൾ കണ്ടു ഇനി നമ്മൾ മാനവിക കാഴ്ചപ്പാടിലേക്ക് വരുന്നു രണ്ട് പ്രധാന വ്യക്തികളെക്കുറിച്ചും അവർ നിർദ്ദേശിച്ച ആശയങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കും ഒന്ന് അബ്രഹാം മാസ്ലോയും മറ്റൊരാൾ കാൾ റോജേഴ്സും ആണ് അബ്രഹാം മസ്ലോയുടെ സിദ്ധാന്തത്തെ ആത്മ സാക്ഷാത്കാര സിദ്ധാന്തം എന്നും വിളിക്കുന്നു മനുഷ്യന്റെ ഉദ്ദേശ്യങ്ങൾ അടിസ്ഥാനപരമായി സഹജമാണെന്നും അവ മുൻഗണനാക്രമത്തിൽ ക്രമീകരിക്കപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു അതിനാൽ നമ്മുടെ ആവശ്യങ്ങളുടെ ഒരു ശ്രേണി ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്ക്രീനിൽ നോക്കിയാൽ ഒരു പിരമിഡാകൃതി കാണാം അതിന്റെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഫിസിയോളജിക്കൽ ആവശ്യകതകളുണ്ട് പിന്നീട് സുരക്ഷയുടെ ആവശ്യകത അംഗത്വത്തിന്റെ ആവശ്യം ആത്മാഭിമാനം ഒടുവിൽ ആത്മ സാക്ഷാത്കാര ഘട്ടമാണ് ഫിസിയോളജിക്കൽ ആവശ്യങ്ങളിൽ അടിസ്ഥാനപരമായി വിശപ്പ് ദാഹം ലൈംഗികത ഉറക്കം എന്നിവ ഉൾപ്പെടുന്നു ഇവയാണ് നാല് ഫിസിയോളജിക്കൽ ആവശ്യങ്ങൾ ഇപ്പോൾ ഇവയാണ് ചാക്രിക ക്രമത്തിൽ പ്രവർത്തിക്കുന്ന ആവശ്യങ്ങൾ അതിനാൽ നിങ്ങൾ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നു നിങ്ങൾക്ക് ദാഹം ഉണ്ടായിരുന്നു നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ദാഹം വരുന്നു ഒരിക്കൽ കൂടി നിങ്ങൾ അത് തൃപ്തിപ്പെടുത്തുന്നതിനായി പോകേണ്ടി വരും എല്ലാത്തരം ഫിസിയോളജിക്കൽ ആവശ്യങ്ങൾക്കും ഇതുപോലെ തന്നെയാണ് എന്നാൽ ഒരു പരിധിവരെ നിങ്ങളുടെ ഫിസിയോളജിക്കൽ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ സുരക്ഷയുടെ ആവശ്യകത ഉയർന്നുവരുന്നു നിങ്ങൾ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വസ്തുവകകളും നിങ്ങളുമായി ബന്ധമുള്ളവരുമെല്ലാം സുരക്ഷിതരാവണമെന്നുണ്ട് സുരക്ഷയുടെ ആവശ്യകത ഒരു പരിധിവരെ സുരക്ഷിതമാകുമ്പോൾ അംഗത്വത്തിന്റെ ആവശ്യമുണ്ട് അഫിലിയേഷന്റെ ആവശ്യമുണ്ട് ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതേ സമയം നിങ്ങൾ ഒരു കൂട്ടം ആളുകളോടുള്ള ഇഷ്ടം വളർത്തിയെടുക്കണം ഇത് അംഗത്വത്തിന്റെ ആവശ്യകതയാണ് അതിനുശേഷം ആത്മാഭിമാനത്തിന്റെ ആവശ്യകത വരുന്നു ഇപ്പോൾ മാസ്ലോ ചെയ്തത് എന്തെന്നാൽ അദ്ദേഹം അടിസ്ഥാനപരമായി ഈ 5 ഘട്ടങ്ങളെ 2 വിശാലമായ വിഭാഗങ്ങളായി വിഭജിച്ചു ബി ഉദ്ദേശ്യങ്ങളും ഡി ഉദ്ദേശ്യങ്ങളും ഇപ്പോൾ ഡി ഉദ്ദേശ്യങ്ങൾ അടിസ്ഥാനപരമായി കുറവുകളെ അടിസ്ഥാനമാക്കിയുള്ള ഉദ്ദേശ്യങ്ങളാണ് അതേസമയം ഈ വിഭാഗത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ബി മോട്ടീവുകൾ അല്ലെങ്കിൽ ആത്മ സാക്ഷാത്കാരം അടിസ്ഥാനപരമായി മെറ്റാ നീഡുകളാണ് ഇപ്പോൾ ന്യൂനതാ ഉദ്ദേശ്യം അടിസ്ഥാനപരമായി അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ഒരു പരിധിവരെ സംതൃപ്തി നേടാനാകും എന്നാൽ പിന്നീട് ആ ആവശ്യത്തിന്റെ ആവിർഭാവം വീണ്ടും ഉണ്ടാവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അതിനാൽ ഡി ഉദ്ദേശ്യങ്ങൾ അടിസ്ഥാനപരമായി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ന്യൂനതാ മാതൃകയെ അടിസ്ഥാനമാക്കി നിങ്ങൾ ആവശ്യം തൃപ്തിപ്പെടുത്തുകയും നിങ്ങൾ അത് വീണ്ടും ചെയ്യേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും കാരണം നിങ്ങൾ നേടിയതെന്തും അധികകാലം നിലനിൽക്കില്ല അതേസമയം ബി ഉദ്ദേശ്യം അഥവാ ആത്മ സാക്ഷാത്കാരം മെറ്റാനീഡുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവ ഇത് പോലെയല്ല കുറച്ച് കഴിഞ്ഞ് നമുക്ക് മെറ്റാനീഡുകളുടെ സമഗ്രമായ പട്ടിക നോക്കാം രണ്ട് രസകരമായ കാര്യങ്ങൾ എബ്രഹാം മാസ്ലോ നിർദ്ദേശിച്ചു അടിസ്ഥാനപരമായി അദ്ദേഹം പറഞ്ഞു ഈ ഡി ഉദ്ദേശ്യങ്ങൾ നമ്മുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് അവ അടിസ്ഥാനപരമായി നിങ്ങളുടെ അതിജീവനത്തിന് ആവശ്യമാണ് നിങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾ സുരക്ഷതത്വം ഭദ്രത അംഗത്വം എന്നിവ തൃപ്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത അവയെല്ലാം അതിജീവനത്തിന്റെ ഉദ്ദേശ്യം നിറവേറ്റുന്നു വെളിപ്പെടുത്തലിന്റെ ആവശ്യകത സ്നേഹം ബഹുമാനം എന്നിവ പോലും നിങ്ങളുടെ മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യവും നിലനിർത്തുന്നതിനുള്ള ഉപകരണമാണ് അതിനാൽ അവയെല്ലാം അതിജീവന പ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കുന്നു ഇപ്പോൾ ഈ ആവശ്യങ്ങളെല്ലാം അടിസ്ഥാനപരമായി ജനിതകമാണ് ഡി ഉദ്ദേശ്യങ്ങൾ ജനിതകമാണ് അവ ജന്മവാസന പോലെയാണ് വാസ്തവത്തിൽ അബ്രഹാം മാസ്ലോ ഇൻസ്റ്റിങ്ക്റ്റോയിഡ് എന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നതിന്റെ പരിധി വരെ പോയി ജന്മവാസന പോലെ എന്നാണ് അദ്ദേഹം ഈ പദം കൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പോൾ അടിസ്ഥാനപരമായി ഒരു ബി മോട്ടീവ് ആയ ആത്മ സാക്ഷാത്കാരം അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഉള്ള കഴിവിന്റെ ഉന്നതിയിലെത്താനുള്ള ഒരു അവസ്ഥയാണ് അതിനാൽ നിങ്ങൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു വ്യക്തിയായിത്തീരും ഇപ്പോൾ സ്വയം യാഥാർത്ഥ്യമാക്കേണ്ടതിന്റെ ആവശ്യകത അടിസ്ഥാനപരമായി പതിനേഴു വ്യത്യസ്ത മെറ്റാനീഡുകൾ അല്ലെങ്കിൽ മാസ്ലോ പറയുന്ന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കുടയാണ് ശ്രേണിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ബി ആവശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മെറ്റാനീഡുകൾക്ക് അധികാരശ്രേണി ഇല്ല അതിനാൽ എല്ലാ മെറ്റാനീഡുകളും ഒരുപോലെ ശക്തമാണ് ഉദാഹരണത്തിന് പൂർണതയുടെ ആവശ്യകത സൌന്ദര്യത്തിന്റെ ആവശ്യകത സമ്പന്നതയുടെ ആവശ്യകത സമ്പൂർണ്ണത ഇപ്പോൾ ഈ ആവശ്യങ്ങളെല്ലാം ഒരുപോലെ ശക്തമാണ് നിങ്ങൾക്ക് അവ മുൻഗണനയുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാൻ കഴിയില്ല ആത്മ സാക്ഷാത്കാരം എന്നത് അതിനാൽ എല്ലാം അല്ലെങ്കിൽ ഒന്നുമല്ല എന്ന പ്രക്രിയയല്ല മറിച്ച് ഇത് അളവിന്റെ വിഷയമാണ് അതിനാൽ നിങ്ങൾ എത്രമാത്രം തികഞ്ഞവരാണ് എന്നതാണ് പ്രധാനം ആത്മസാക്ഷാത്കാരത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ബി ആവശ്യങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ തികഞ്ഞവരാണോ അല്ലയോ എന്നത് ശരിയല്ല അതേസമയം ഡി ആവശ്യങ്ങളുടെ കാര്യത്തിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു ഫിസിയോളജിക്കൽ അവസ്ഥയുണ്ട് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ദാഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ദാഹമില്ല എന്നാൽ മെറ്റാനീഡുകളുടെ കാര്യത്തിൽ ആത്മ സാക്ഷാത്കാരത്തിൽ അവയെല്ലാം തുല്യ പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു മാത്രമല്ല അവ അളവിന്റെ കാര്യത്തിൽ മാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു തീർച്ചയായും ഒരു മനുഷ്യനും യഥാർത്ഥത്തിൽ പൂർണ്ണതയോടെ സ്വയം സാക്ഷാത്കരിക്കപ്പെടുന്നില്ല എന്നതാണ് വിനീതമായ ഒരു പ്രസ്താവന ഇപ്പോൾ മാസ്ലോ നിർദ്ദേശിച്ച ആദരവ് എന്ന ആശയം ആഡ്ലർ ശ്രേഷ്ഠതയ്ക്കായി പരിശ്രമിക്കുക എന്ന് പറഞ്ഞതിനോടോ അല്ലെങ്കിൽ എറിക്സൺ പാണ്ഡിത്യത്തിന്റെ ആവശ്യകത എന്ന് പറഞ്ഞതിനോടോ സമാനമാണ് ഇവ തമ്മിൽ ഒരു സാമ്യമുണ്ട് അതിനാൽ വ്യക്തിത്വത്തോടുള്ള ചലനാത്മക സമീപനം സംസാരിക്കുന്നത് അഡ്ലറും എറിക്സണും നിർദ്ദേശിച്ച യഥാക്രമം ശ്രേഷ്ഠതയ്ക്കുള്ള പരിശ്രമത്തെക്കുറിച്ചോ അല്ലെങ്കിൽ തീർച്ചയായും പാണ്ഡിത്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ചോ ആണ് ഇവ മാസ്ലോ നിർദ്ദേശിച്ച ആത്മാഭിമാനത്തിന്റെ ആവശ്യകതയ്ക്ക് സമാനമാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മെറ്റാനീഡുകളുടെ ലിസ്റ്റ് കാണാം ഇടത് വശത്ത് നിങ്ങൾക്ക് ആകർഷകമായ മെറ്റാനീഡുകൾ കാണാം അതേസമയം നിങ്ങൾ ആകർഷകമായ കാര്യം നേടാൻ ശ്രമിക്കുമ്പോൾ തന്നെ സ്ക്രീനിന്റെ വലതുവശത്ത് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന മെറ്റാനീഡുകൾ ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ സത്യത്തെ യോഗ്യമായ സ്വഭാവസവിശേഷതയായി കണക്കാക്കുന്നത് പോലെ നിങ്ങൾ സത്യസന്ധമായി തുടരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അതിനെ ബഹുമാനിക്കുന്നു നിങ്ങളിൽ അത് ഉണ്ടായിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ അതേ സമയം നിങ്ങൾ കള്ളത്തരത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളിൽ നന്മ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ അതേ സമയം നിങ്ങൾ ഹീനമാവാതിരിക്കാൻ പരമാവധി ശ്രമിക്കും അതുപോലെ ഇടത് വലത് പാനലുകൾ അടിസ്ഥാനപരമായി ഒരു സ്പെക്ട്രത്തിന്റെ രണ്ട് അറ്റങ്ങളാണ് കൂടാതെ അടിസ്ഥാനപരമായി ഈ മെറ്റാനീഡുകൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അവ വളരെ പോസിറ്റീവായി ഓറിയന്റഡ് ആണെന്ന് കാണാനാവും ഇപ്പോൾ സത്യം നന്മ സൌന്ദര്യം ഐക്യം വിപരീതങ്ങളുടെ സമഗ്രതയും വിശിഷ്ഠതയും അസ്തിത്വം അദ്വിതീയത പൂർണത ആവശ്യകത പൂർത്തീകരണം നീതി ക്രമം ലാളിത്യം സമ്പന്നത അനായാസത കളിമട്ട് സ്വയം പര്യാപ്തത അർത്ഥപൂർണ്ണത അവയെല്ലാം അനുകൂലമായ ഭാവമുള്ളവയാണ് അതിനാൽ നിങ്ങൾ ഈ മെറ്റാനീഡുകൾ നേടാൻ ശ്രമിക്കുമ്പോൾ അത് നിലനിർത്താൻ കഴിയുന്ന അളവാണ് പ്രധാനം അതിനാൽ നിങ്ങൾ എത്രമാത്രം സത്യസന്ധരാണ് അത് അടിസ്ഥാനപരമായി ഈ മെറ്റാനീഡുകളുടെ വ്യാഖ്യാനമായിരിക്കും നിങ്ങളിൽ ഒരു പരിധിവരെ സത്യസന്ധത നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കള്ളത്തരം കാണിക്കുന്നില്ലെന്ന് നിങ്ങൾ ഉറപ്പാക്കുന്നു അതുപോലെ ഇപ്പോൾ താഴെ തട്ടിലെ ആവശ്യങ്ങൾ അതായത് ഡി ആവശ്യങ്ങൾ കൂടുതലായും ഫിസിയോളജിക്കൽ അധിഷ്ഠിതവും സുരക്ഷയെ അടിസ്ഥാനമാക്കിയുള്ളതുമാണ് മാസ്ലോയുടെ അഭിപ്രായത്തിൽ ഉയർന്ന തലത്തിലുള്ള ആവശ്യകതകൾ സജീവമാകുന്നതിനുമുമ്പ് അവർ സംതൃപ്തരാകണം അതിനാൽ നിങ്ങൾ ഫിസിയോളജിക്കൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നു നിങ്ങൾ സുരക്ഷാ ഭദ്രതയുടെ ആവശ്യകതയിലേക്ക് വരുന്നു തുടർന്ന് നിങ്ങൾ അംഗത്വത്തിലേക്ക് വരുന്നു നിങ്ങൾ ആത്മാഭിമാനത്തിലേക്ക് വരുന്നു ഒരിക്കൽ നിങ്ങൾക്ക് ഡി ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ബി ആവശ്യങ്ങളിലേക്ക് നീങ്ങും ഇപ്പോൾ ഈ ഫിസിയോളജിക്കൽ ആവശ്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ചാക്രിക സ്വഭാവമുള്ളവയാണ് അതിനാൽ ഫിസിയോളജിക്കൽ ആവശ്യങ്ങൾ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല ആത്മാഭിമാനത്തിന്റെയും സുരക്ഷയുടെയും ആവശ്യകതയുടെ കാര്യത്തിൽ ഇത് ശരിയല്ല തീർച്ചയായും അവ തൃപ്തിപ്പെടുത്താം പക്ഷേ എന്താണ് സംഭവിക്കുന്നത് ചലനാത്മക സമീപനത്തിൽ വിവരിച്ചിരിക്കുന്ന രസകരമായ ഒരു പ്രതിഭാസമുണ്ട് സമ്മർദ്ദകരമായ അവസ്ഥയിലോ അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിന് ഭീഷണി ഉള്ളപ്പോളോ നാമെല്ലാവരും നമ്മുടെ താഴ്ന്ന ആവശ്യങ്ങളിലേക്ക് മടങ്ങുന്നു എന്ന് മാസ്ലോ പറയുന്നു അതിനാൽ അതിജീവനത്തിന് ഭീഷണിയോ അല്ലെങ്കിൽ വളരെ സമ്മർദ്ദകരമായ അവസ്ഥയോ ഉള്ളപ്പോൾ ആളുകൾ അവരുടെ ശാരീരിക ആവശ്യങ്ങൾ സുരക്ഷയുടെ ആവശ്യകത സ്വത്വം മുതലായവയെക്കുറിച്ച് വിഷമിക്കാൻ തുടങ്ങുമെന്ന് പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ മാസ്ലോ പറയുന്നത് ആത്മാഭിമാന ആവശ്യങ്ങളുടെ സംതൃപ്തിക്ക് ആത്മവിശ്വാസം കഴിവ് ശക്തി മൂല്യബോധം തുടങ്ങിയ നിർമ്മിത വികാരങ്ങൾ ആവശ്യമാണ് എന്നാണ് കൂടാതെ ആത്മാഭിമാനത്തിന്റെ ആവശ്യങ്ങൾ തടസപ്പെടുമ്പോൾ അത് അപകർഷതാബോധം നിസ്സഹായത ബലഹീനത എന്നിവയിലേക്ക് നയിക്കുകയും ചെയ്യും തീർച്ചയായും നമ്മൾ ശക്തി കഴിവ് ആത്മവിശ്വാസം സ്വാതന്ത്ര്യം പാണ്ഡിത്യം അന്തസ്സ് പ്രശസ്തി ആധിപത്യം അന്തസ്സ് അഭിനന്ദനം എന്നിവയുടെ ആവശ്യങ്ങൾക്കായി പരിശ്രമിക്കുന്നു നിങ്ങൾ ചലനാത്മക സമീപനത്തിലേക്ക് പോയാലും വ്യാപാര സമീപനത്തിലേക്ക് പോയാലും അവയെല്ലാം പരാമർശിക്കപ്പെടുന്നതായി നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ പെരുമാറ്റപരമായ സമീപനത്തിലേക്ക് പോയാലും അല്ലെങ്കിൽ നിങ്ങൾ മാനവിക സമീപനത്തിലേക്ക് വന്നാലും ഏത് തരം സമീപനം ആയാലും മനശാസ്ത്രജ്ഞർ ഈ ചിന്താശൈലിയിൽ നിന്ന് വ്യക്തികളുടെ വ്യക്തിത്വം ഒരു പ്രത്യേക രീതിയിൽ രൂപപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നിർവ്വചിക്കുന്നതിൽ ഒരു പ്രവർത്തനരീതി സ്വീകരിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കും മൊത്തത്തിൽ നോക്കിയാൽ മനുഷ്യന്റെ സ്വഭാവസവിശേഷതകൾ മാറുന്നില്ല അവ അതേപടി നിലനിൽക്കുന്നു മനുഷ്യരുടെ സ്വന്തമാക്കൽ പ്രക്രിയ അവർ എങ്ങനെയാണ് നേടുന്നത് എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള സ്വഭാവസവിശേഷതകൾ പ്രതിഫലിപ്പിക്കുന്നത് വ്യത്യസ്ത ചിന്താഗതികൾ സ്വീകരിക്കുന്ന സമീപനം അല്പം വ്യത്യസ്തമാണ് പക്ഷേ മൊത്തത്തിൽ നോക്കിയാൽ അവർ മനുഷ്യരുടെ സമാന ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു നമ്മൾ ഇനി ഹ്യൂമനിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ടിലെ രണ്ടാമത്തെ അഭിനന്ദ്യ വ്യക്തിയായ കാൾ റോജേഴ്സിലേക്ക് വരുന്നു കാൾ റോജേഴ്സിന്റെ പ്രചരണത്തെ സെൽഫ് സിദ്ധാന്തം എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം എന്നും വിളിക്കുന്നു ഇത് പ്രാഥമികമായി ഒരു ക്ലയന്റ് കേന്ദ്രീകൃത തെറാപ്പിസ്റ്റെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ ഒരു പുതിയ ചികിത്സാ ഇടപെടൽ രീതി അവതരിപ്പിച്ചതിന് അദ്ദേഹത്തിന് ക്രെഡിറ്റ് ലഭിക്കുന്നു ഇപ്പോൾ റോജർസ് അടിസ്ഥാനപരമായി തന്റെ സമീപനത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഓർഗാനിസത്തെ കുറിച്ച് സംസാരിക്കുന്നു ഓർഗാനിസം എന്നത് കൊണ്ട് അദ്ദേഹം പരാമർശിക്കുന്നത് ഒരു നിശ്ചിത നീക്കത്തിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ നടക്കുന്ന അനുഭവത്തിന്റെ സമഗ്രതയെയാണ് അതിനാൽ അടിസ്ഥാനപരമായി റോജർസ് സംസാരിക്കുന്ന എല്ലാ അനുഭവങ്ങളുടെയും കേന്ദ്രമാണ് ഓർഗാനിസം അനുഭവത്തിന്റെ പൂർണ്ണത എന്നതിൽ ബോധാവസ്ഥയിലുള്ളതും അബോധാവസ്ഥയിലുള്ളതുമായ അനുഭവങ്ങൾ ഉൾപ്പെടുന്നു അദ്ദേഹം ഗ്രഹണ മണ്ഡലത്തെക്കുറിച്ചോ ദർശനപരമായ മേഖലയെക്കുറിച്ചോ സംസാരിക്കുന്നു ഈ മണ്ഡലത്തിൽ തന്നെ ആ ജീവിയുടെയോ വ്യക്തിയുടെയോ അനുഭവത്തിന്റെ ആകെത്തുക അടങ്ങിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു റോജർസിന്റെ അഭിപ്രായത്തിൽ ദർശനപരമായ മേഖലകളിലെ അനുഭവങ്ങൾ ആന്തരിക അനുഭവങ്ങളും ഉറവിടങ്ങൾ ആന്തരികമോ ബാഹ്യമോ അല്ലെങ്കിൽ അത് രണ്ടും ആകാം ഇപ്പോൾ സമ്പൂർണ്ണമായ അനുഭവത്തിന്റെ ഒരു ഉപോൽപ്പന്നമായി സെൽഫ് ഉയർന്നുവന്നിരിക്കുന്നു സെൽഫ് എന്നത് ഫ്ലൂയിഡ് ചേഞ്ചിങ് ഗെസ്റ്റാൾട്ട് എന്നിവയാണ് അതിനാൽ റോജേഴ്സിന്റെ അഭിപ്രായത്തിൽ സെൽഫ് ഒന്നുകിൽ അവബോധത്തിൽ നിന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ അത് അവബോധത്തിൽ നിന്നല്ലാത്തതാകാം കൂടാതെ സെൽഫിന്റെ വളർച്ചയോടെ വളർന്നുവരുന്ന കുട്ടി അല്ലെങ്കിൽ ശിശു നല്ലതും ചീത്തയും മനസ്സിലാക്കാൻ തുടങ്ങുന്നു അതോടൊപ്പം അതിന്റെ അനുഭവം പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയി വിലയിരുത്താൻ ശ്രമിക്കുന്നു അതിനാൽ സെൽഫ് വ്യക്തിത്വത്തിന്റെ പ്രത്യേക മാനമല്ലെന്ന് റോജർ പറയുന്നു ചലനാത്മക കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ചലനാത്മക സമീപനത്തിൽ സെൽഫ് എന്ന ആശയത്തെ കുറിച്ച് ഫ്രോയിഡ് നിർദ്ദേശിച്ച രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ആണ് റോജർ സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ വ്യക്തിത്വത്തിന്റെ ഒരു സ്വതന്ത്ര മാനമായി സെൽഫ് വേർതിരിക്കാനാവില്ല ഒരു വ്യക്തി സെൽഫ് സ്വന്തമാക്കുന്നില്ല എന്നാൽ സെൽഫ് എന്നത് മുഴുവൻ ഓർഗാനിസത്തെയും ഉൾക്കൊള്ളുന്നു സെൽഫിന്റെ രണ്ട് ഉപ സംവിധാനങ്ങളെക്കുറിച്ചും റോജേഴ്സ് സംസാരിക്കുന്നു സെൽഫ് കോൺസെപ്റ്റ് ഐഡിയൽ സെൽഫ് എന്നിവയാണത് ഇപ്പോൾ അവബോധത്തിൽ വ്യക്തി സ്വായത്തമാക്കുന്ന അനുഭവങ്ങളുടെ എല്ലാ വശങ്ങളും സെൽഫ് കോൺസെപ്റ്റ് രൂപപ്പെടുത്തുന്നു എന്നാൽ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണമെന്ന് അല്ലെങ്കിൽ ഒരാൾ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളാണ് ഐഡിയൽ സെൽഫ് അതിനാൽ നിങ്ങൾക്ക് സെൽഫ് കോൺസെപ്റ്റ് എന്ന ആശയം ഉണ്ട് അത് നിങ്ങളുടെ അനുഭവത്തെ നിങ്ങളുടെ അവബോധത്തെ നിങ്ങളുടെ ജ്ഞാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതേസമയം നിങ്ങൾ എന്താണ് ആകാൻ ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങളുടെ ഐഡിയൽ സെൽഫ് ഇനി റോജേഴ്സിന്റെ അഭിപ്രായത്തിൽ ഒരിക്കൽ സെൽഫ് കോൺസെപ്റ്റ് രൂപപ്പെട്ടുകഴിഞ്ഞാൽ മാറ്റവും തുടർന്നുള്ള പഠനവും ബുദ്ധിമുട്ടായിത്തീരുന്നു അതിനാൽ സെൽഫ് കോൺസെപ്റ്റുമായി പൊരുത്തമില്ലാത്ത അനുഭവങ്ങൾ അവ ഒന്നുകിൽ വ്യക്തി നിഷേധിക്കുകയോ അല്ലെങ്കിൽ അവ വികലമാവുകയോ ചെയ്യുന്നു അതിനാൽ സെൽഫ് കോൺസെപ്റ്റ് ഓർഗാനിസ്മിക് സെൽഫിൽ നിന്നോ റിയൽ സെൽഫിൽ നിന്നോ വ്യത്യസ്തമാണ് ഇത് ഒരാൾക്ക് അറിയാവുന്ന അനുഭവങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ നമ്മുടെ അവബോധത്തിന് അതീതമായ അനുഭവങ്ങളും ഓർഗാനിസ്മിക് സെൽഫിൽ ഉൾപ്പെടുന്നു ഇപ്പോൾ അദ്ദേഹം വളച്ചൊടിക്കലിനെക്കുറിച്ചും നിഷേധത്തെക്കുറിച്ചും സംസാരിച്ചു വളച്ചൊടിക്കലും നിഷേധവും അടിസ്ഥാനപരമായി ഒരാൾ ഉപയോഗിക്കുന്ന രണ്ട് തരം പ്രതിരോധങ്ങളാണ് ഒരു വ്യക്തി സെൽഫ് കോൺസെപ്റ്റിന്റെ ചില വശങ്ങളിലേക്ക് നന്നായി ചേരുന്നതിനായി ഒരു അനുഭവത്തെ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ ഉള്ള ഒരു കേസാണ് വളച്ചൊടിക്കൽ അതിനാൽ നിങ്ങളുടെ അടുത്ത് സെൽഫ് കോൺസെപ്റ്റുണ്ട് ഒരു അനുഭവവുമുണ്ട് തുടർന്ന് നിങ്ങൾ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു ഇത് യഥാർത്ഥ വ്യാഖ്യാനമല്ല അതിനാൽ അത് വളച്ചൊടിക്കലായി മാറുന്നു അനുഭവം അവബോധത്തിൽ ഒട്ടും ഗ്രഹിക്കാത്ത പ്രതിരോധത്തിന്റെ മറ്റൊരു രൂപമാണ് നിഷേധം നിഷേധവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായും വളച്ചൊടിക്കൽ വളരെ സാധാരണമാണ് അതിനാൽ മനുഷ്യർ അവരുടെ അനുഭവങ്ങളുടെ വസ്തുതകൾ പൂർണ്ണമായി നിഷേധിക്കുന്നതിനുപകരം വളച്ചൊടിച്ച് ഉപയോഗിക്കുന്നു ഇനി അഥവാ ഉത്കണ്ഠയുടെ അളവ് കൂടുതലാണെങ്കിൽ വ്യക്തിയുടെ പ്രതിരോധം പ്രവർത്തിക്കുകയില്ല അങ്ങനെ അവരുടെ വ്യക്തിത്വം അസംഘടിതമാകും ഇപ്പോൾ ഐഡിയൽ സെൽഫ് എന്ന ആശയം അടിസ്ഥാനപരമായി ഫ്രോയിഡ് നിർദ്ദേശിച്ച സൂപ്പർ ഈഗോ എന്ന ആശയത്തിന് തുല്യമാണ് ഒരു വ്യക്തി പ്രോസസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആട്രിബ്യൂട്ടുകളും സ്വഭാവസവിശേഷതകളും ഐഡിയൽ സെൽഫിൽ അടങ്ങിയിരിക്കുന്നു കൂടാതെ ഐഡിയൽ സെൽഫും പെർസീവ്ഡ് സെൽഫും തമ്മിലുള്ള വിടവ് വിശാലമാണ് അത് പൊരുത്തക്കേടുകളും മനശാസ്ത്രപരമായി അനാരോഗ്യകരമായ വ്യക്തിത്വവും സൂചിപ്പിക്കുന്നു അതിനാൽ കാൾ റോജേഴ്സിന്റെ കാഴ്ച്ചപ്പാട് അനുസരിച്ച് വ്യക്തിത്വത്തിന്റെ ആരോഗ്യകരമായ വശവും പാത്തോളജിക്കൽ വശവും മനസ്സിലാക്കാൻ ആർക്കും നിങ്ങളെ സഹായിക്കാനാകില്ല റോജഴ്സിന്റെ അഭിപ്രായത്തിൽ ഓരോ വ്യക്തിക്കും തനിക്കുള്ള തനതായ കഴിവുകളെ അടിസ്ഥാനമാക്കി സ്വയം സാക്ഷാത്കരിക്കാനുള്ള അന്തർലീനമായ പ്രവണതയുണ്ട് ആത്മ സാക്ഷാത്കാരം എന്നത് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായ ഒരു വളർച്ചാ ശക്തിയാണ് ആത്മ സാക്ഷാത്കാരത്തിൽ ജീവശാസ്ത്രപരമായ കഴിവുകൾ ഉൾപ്പെടുന്നു എന്നാൽ മാനസിക വളർച്ചയും ജീവജാലത്തെ പരിപാലിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു നീക്കവും ഉൾപ്പെടുന്നു ഇത് ക്രമേണ ലളിതമായതിൽനിന്ന് സങ്കീർണ്ണമായ അവസ്ഥയിലേക്ക് വികസിക്കുകയും മാത്രമല്ല ഇത് നമ്മുടെ ഉള്ളിലെ ഒരു ചലനാത്മക ശക്തിയായി മാറുകയും ചെയ്യുന്നു റോജേഴ്സിന്റെ അഭിപ്രായത്തിൽ ആത്മ സാക്ഷാത്കാരവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ആവശ്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നുള്ള അനുകൂലമായ പരിഗണനയുടെ ആവശ്യകതയും സ്വയം ആദരവിന്റെ ആവശ്യവുമാണ് അതിനാൽ നിങ്ങൾ മറ്റുള്ളവരെ പരിഗണിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നിങ്ങളും പരിഗണിക്കപ്പെടേണ്ടതുണ്ട് അതിനാൽ ഹ്യൂമനിസ്റ്റിക് സ്കൂൾ ഓഫ് തോട്ട് നൽകിയ രസകരമായ ആശയങ്ങളാണ് ഇവ മൊത്തത്തിൽ നിങ്ങൾ പാശ്ചാത്യ വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് നാല് വ്യത്യസ്ത ശക്തികൾ കാണാം ആദ്യ ശക്തി ഫ്രോയിഡിയൻ ശക്തിയാണ് രണ്ടാമത്തെ ശക്തി അത് പെരുമാറ്റ ശക്തിയാണ് മൂന്നാമത്തെ ശക്തി യൂറോപ്യൻ അസ്തിത്വവാദം ഉൾപ്പെടുന്ന ഹ്യൂമനിസം ആണ് നാലാമത്തേത് ട്രാൻസ്പേഴ്സണൽ സൈക്കോളജി ആണ് അതിനാൽ പാശ്ചാത്യ വീക്ഷണകോണിൽ നിന്നുള്ള ഈ നാല് ശക്തികളും നോക്കുമ്പോൾ അവ മനശാസ്ത്രത്തെ വളരെയധികം സ്വാധീനിക്കുന്നുവെന്ന് വ്യക്തിത്വത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും എന്നാൽ നാലാമത്തെ ശക്തി കിഴക്കൻ തത്ത്വചിന്തയിൽ നിന്ന് സൂചനകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവ ധ്യാനം ഉയർന്ന തലത്തിലുള്ള ബോധം ചില പാരസൈക്കോളജിക്കൽ പ്രതിഭാസങ്ങൾ പോലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ശ്രമിച്ചുവെന്നും നിങ്ങൾക്ക് മനസ്സിലാകും അതിനാൽ പാശ്ചാത്യ വീക്ഷണകോണിനെ കുറിച്ചുള്ള ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുന്നു പക്ഷെ ഇന്ത്യൻ കാഴ്ചപ്പാടിനെക്കുറിച്ചും സംസാരിക്കാൻ നമ്മൾ തീർച്ചയായും ആഗ്രഹിക്കുന്നു അത് നമ്മൾ അടുത്ത പ്രഭാഷണത്തിൽ എടുക്കുന്നതാണ്